Cloud Computing ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് Prof Soumya Kanti Ghosh Department of Computer Science and Engineering Indian Institute of Technology Kharagpur Lecture - 06 പ്രഭാഷണം - 06 Architecture Deployment Models ആർക്കിടെക്ചർ ഡിപ്ലോയ്മെൻറ് മോഡലുകൾ നമസ്കാരം ക്ലൌഡ് കമ്പ്യൂട്ടിംഗിനെക്കുറിച്ചുള്ള അതിനാൽ മുമ്പത്തെ പ്രഭാഷണങ്ങളിൽ വിവിധ തരം സേവന മോഡലുകളെക്കുറിച്ചാണ് ചെയ്യാനാകും അതിനാൽ ഒരു പൊതു ക്ലൌഡിൻറെ കൂടാതെ പണം നൽകാനും ഉപയോഗിക്കാനും കഴിയുന്ന ആർക്കും ഉപയോഗിക്കാനായി വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് നിയമപരമായ ചില നയ പ്രശ്നങ്ങളുണ്ട് അതും അനുരൂപമാക്കേണ്ടതുണ്ട് അതിനാൽ ഇത് ഒരു ബിസിനസ്സ് പരിസരങ്ങളിലോ ആണ് ഉള്ളത് സ്വകാര്യമായിട്ടല്ല അല്ലെങ്കിൽ ഉപയോക്താക്കളുടെ പരിസരത്ത് അല്ല അതിനാൽ അത് കാര്യത്തിന്റെ ഒരു വശമാണ് ഒരു പൊതു ക്രമീകരണത്തിൽ ദാതാവിന്റെ കമ്പ്യൂട്ടിംഗ് കഴിയുന്ന ഏതൊരാൾക്കും ഒരു സേവന ദാതാവിനെ സമീപിക്കാൻ ആകും കൂടാതെ നിങ്ങൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഉപയോക്താക്കളുണ്ടാകാം അതിനാൽ വർക്ക്ലോഡ് ആരെങ്കിലും അല്ലെങ്കിൽ വളരെ വിശ്വസ്തനല്ലാത്ത ഒരാൾ ആണെങ്കിൽ രണ്ട് വ്യത്യസ്ത ഉപയോക്താക്കൾക്ക് ഒരേ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നത് സുഖകരമാവില്ല അതിനാൽ മറ്റൊരു അർത്ഥത്തിൽ മൾട്ടി ടെനൻസിയിൽ എതിരാളിയുടെ ജോലിഭാരവുമായി സഹവസിക്കുന്നതാകാം അതിനാൽ ഇത് വിശ്വാസ്യതയും സുരക്ഷാ അപകടസാധ്യതയും അവതരിപ്പിക്കുന്നു അതിനാൽ ഒരു ഓൺസൈറ്റ് പബ്ലിക് ക്ലൌഡിന്റെ എല്ലായ്പ്പോഴും ലഭ്യമായിരിക്കണം അതിനാൽ ഒരു ആശ്രയത്വമുണ്ട് സുരക്ഷയുമായി ബന്ധപ്പെട്ട ഡാറ്റയിൽ സാധ്യമാണ് മറ്റൊരു പ്രധാന കാര്യം ക്ലൌഡിലേക്ക് കരാറുകളുമായി പൊരുത്തപ്പെടേണ്ടതുണ്ട് അതിനാൽ മിക്ക കേസുകളിലും പ്രത്യേക SLAയും തരത്തിലുള്ള കാര്യങ്ങളും ഉപയോഗിച്ച് ഒരു പ്രത്യേക നിരക്ക് ചർച്ച ചെയ്യുന്ന ഒരു വലിയ തോതിലുള്ള വിന്യാസത്തിനായി നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ മിക്ക കേസുകളിലും ദാതാവ് നൽകുന്നതെന്തും പോലെ നൽകിയിരിക്കുന്ന നിബന്ധനകളും വ്യവസ്ഥകളും പാലിക്കേണ്ടതുണ്ട് എന്നാൽ സാധാരണയായി ഒരു ചെറിയ സ്ഥാപനത്തിനും പൊതുജനങ്ങൾക്കും നമ്മൾ നൽകുന്നതെന്തും സ്ഥിരീകരിക്കേണ്ടതുണ്ട് അതിനാൽപൊതുജനങ്ങളിൽ നിന്നുള്ള മറ്റ് വശങ്ങൾ സ്വകാര്യമാണ് അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലൌഡ് നിയന്ത്രണത്തിനും കാര്യങ്ങൾക്കും കീഴിലാണ് ഇത് പരിസരത്തും അല്ലാതെയും നിലനിൽക്കുന്നു അതിനാൽ സാധാരണയായി സ്ഥലത്തുണ്ടായിരിക്കാം അല്ലെങ്കിൽ സ്വകാര്യ ക്ലൌഡ് ഔട്ട്സോഴ്സ് നൽകുന്നു അതിനാൽ ജനകീയ വിശ്വാസത്തിന് വിരുദ്ധമായി ഒരു സ്വകാര്യ ക്ലൌഡിനെ ചെയ്യുന്നു എവിടെയാണെങ്കിലും അതിനാൽ ഒരു ഓൺ സൈറ്റ് onsite സ്വകാര്യ ക്ലൌഡിന്റെ മുഴുവൻ വിഭവങ്ങളിലും എനിക്ക് മൊത്തത്തിലുള്ള നിയന്ത്രണം നേടാനാകും അതിനാൽ ഓൺസൈറ്റ് മറുവശത്ത് ആണ് എങ്കിൽ പോലും മൾട്ടി ടെനൻസിയിൽ പരിമിതി കാരണം പ്രശ്നമാകാം ബാഹ്യ ഭീഷണികളിൽ നിന്നുള്ള ശക്തമായ സുരക്ഷ സാധാരണയായി ഇത് നിങ്ങളുടെ നെറ്റ്വർക്ക് ചെയ്യുന്നതിന് ഒരു പ്രധാന ചിലവ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ കൈവശം പരിമിതമായ ഒരു വിഭവം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ താൽപ്പര്യമുണ്ട് നിങ്ങൾ വാങ്ങണം ഇൻസ്റ്റാൾ ചെയ്യുക പക്ഷെ ഞാൻ ആ 1 5x തുകയിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ ഇതിൻറെ മറ്റൊരു വകഭേദമുണ്ട് ഞാൻ ഇത് സ്വകാര്യമായി സൂക്ഷിക്കുന്നു എന്നാൽ ഞാൻ ഇത് ഔട്ട്സോഴ്സ് സേവന ദാതാവിന്റെ ഉപസെറ്റായിരിക്കാം അതിനാൽ കാര്യങ്ങളുമായി ഒത്തുചേരുന്ന ഒരു ചാനൽ വരെ സുരക്ഷിതമായിരിക്കണം അതിനാൽ ഔട്ട്സോഴ്സ് മാറുന്നില്ല പക്ഷേ നിങ്ങൾ ഏറ്റവും താഴ്ന്ന നിലയിൽ ചില അടിസ്ഥാന സൌകര്യങ്ങൾ പങ്കിടുന്നുണ്ടാകാം എന്നാൽ ഉയർന്ന തലത്തിൽ നിങ്ങൾ ആരെയും കാര്യങ്ങളിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല ക്ലൌഡുകളെ നൽകുന്ന മൂന്നാം കക്ഷിയെ നൽകുന്ന ദാതാവിനൊപ്പം SLA അനുസരിച്ച് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതായി വരും വിപുലമായ വിഭവ ലഭ്യത ഒരു നേട്ടമായിരിക്കാം കാരണം ഇത് പരിമിതപ്പെടുത്തിയിട്ടില്ല ഞാൻ ഒരു അവസരം എടുക്കുന്നു അതിനാൽ ഇത് വർദ്ധിപ്പിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു മറ്റേ അറ്റത്ത് ഇത് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് ദാതാവ് സാധാരണയായി അവർക്ക് അവരുടെ ബാക്ക്ബോണിൽ ധാരാളം വിഭവങ്ങളുണ്ട് അതിനാൽ ഒരു വശം സ്വകാര്യമാണ് ഒരു വശം പൊതുവായതാണ് കമ്മ്യൂണിറ്റി ക്ലൌഡ് ചെയ്യുന്നതുമാണ് അതിനാൽ ഒരു മൂന്നാം കക്ഷി അല്ലെങ്കിൽ അതിന്റെ ചില കോമ്പിനേഷനുകൾ ഉണ്ട് അവ വിവിധ സേവന ദാതാക്കൾ ലഭ്യമാക്കുന്നു അതിനാൽ നിരവധി A B C ഓർഗനൈസേഷനുകൾ ഭാഗമാണ് അതിനാൽ വ്യത്യസ്ത നയങ്ങളും മറ്റും ഉണ്ടായിരിക്കാം പക്ഷേ പ്രാഥമിക ലക്ഷ്യം സമാനമായ അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള വർക്ക്ഫ്ലോ ആക്കുന്നത് ഉൽപാദനക്ഷമതയെ സഹായിക്കും വീണ്ടും ധാരാളം സ്വഭാവസവിശേഷതകൾ ഉണ്ട് അതിർത്തി കൺട്രോളർമാർ ആശ്രയത്വമുണ്ട് വ്യത്യസ്ത കമ്മ്യൂണിറ്റി നിന്ന് വീണ്ടും മറച്ചിരിക്കുന്നു ഡാറ്റ നയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ബാഹ്യ ഭീഷണികളോട് മികച്ച പ്രതിരോധം ഉണ്ടായിരിക്കും ക്ലൌഡിലേക്ക് മുൻകൂർ ചിലവുണ്ട് അതിനാൽ നിങ്ങൾ കാര്യങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട് മൂന്ന് ഓർഗനൈസേഷനുകൾ അത്തരം പ്രശ്നങ്ങളും പ്രവർത്തിക്കുന്നതുപോലുള്ള വ്യത്യസ്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കാം കമ്മ്യൂണിറ്റി ക്ലൌഡ് നിന്ന് മറയ്ക്കുകയില്ല മൾട്ടി ടെൻസി നടത്തുകയാണെങ്കിൽ വിപുലമായ വിഭവ ലഭ്യത സാധ്യമാണ് അതിനാൽ ഇതിനുപുറമെ സൈദ്ധാന്തികമായി കാണാനോ പ്രായോഗികമായി കാണാനോ കഴിയുന്നതുപോലെ അത് എല്ലാം ചേർന്ന ഒരു ക്ലൌഡ് തിരിച്ചറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് ഇത് പ്രധാനമാണ് ഒന്നാമതായി എല്ലാം ഏതുതരം ഉപയോഗ പാറ്റേണാണ് ഉണ്ടെങ്കിൽ ഞാൻ വിദ്യാർത്ഥികളുടെ രേഖകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ പരീക്ഷിക്കുന്ന കാര്യങ്ങൾ സൂക്ഷിക്കുന്നതിനേക്കാൾ സുരക്ഷയുടെ തോത് വളരെ കുറവാണ് അതിനാൽ സമാന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിലും ഇതിന്റെ ഒരു ഔട്ട്സോഴ്സ് ഒരു സ്ഥലമാണ് ഇത് കാര്യങ്ങളിലേക്ക് പോകുന്നു

അതിനാൽ അദ്വിതീയ എന്റിറ്റികളായി പോലെ പ്രവർത്തിക്കുന്നു അതിനാൽ ഡാറ്റയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നൽകുന്ന മറ്റ് നിരവധി ദാതാക്കളുണ്ട് അതിനാൽ ഹൈബ്രിഡ് ക്ലൌഡ് തുടങ്ങിയവയാണെങ്കിൽ സുരക്ഷാ സവിശേഷതകളിലെ പ്രകടന വ്യത്യാസത്തിൽ വ്യത്യാസമുണ്ടാകും അതിനാൽ ഒരു ഹൈബ്രിഡ് ക്ലൌഡ് നിർമ്മിക്കാം അതിനാൽ ഇപ്പോൾ ഇത് മാറിയേക്കാം നിങ്ങളുടെ നിബന്ധനകളും വ്യവസ്ഥകളും സബ്സ്ക്രിപ്ഷനും ഉപേക്ഷിക്കുകയോ ചേരുകയോ ചെയ്യാം മാത്രമല്ല മുഴുവൻ പ്രക്രിയയും സങ്കീർണ്ണമാക്കുകയും ചെയ്യും അതിനാൽ ഇപ്പോൾ ഞാൻ എന്ത് തിരഞ്ഞെടുക്കണം എന്റെ ഡിപ്ലോയ്മെൻറ് മോഡൽ നിന്ന് ഈ വിഭവങ്ങൾ നൽകുകയോ ചെയ്യാം ഇപ്പോൾ അങ്ങനെ സംഭവിക്കാം എന്റെ ക്ലയന്റുകൾ തരങ്ങളിലേക്കും പോകാം അതിനാൽ അത് കൈകാര്യം ചെയ്യാനുള്ള ഓർഗനൈസേഷനോ മറ്റ് വശങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണം തുടരാം